ഡിസാസ്റ്റർ റിക്കവറി ആൻഡ് ബിൽഡ് ബാക്ക് ബെറ്റർ എന്ന കോഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ പേര് രാം സതീഷ് ഞാൻ ഐഐടി റൂർക്കിയിലെ ആർക്കിടെക്ചർ ആന്റ് പ്ലാനിംഗ് വിഭാഗത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറാണ് ഇന്ന് ഡിസാസ്റ്റർ റിസ്ക് റീഡക്ഷൻ എന്ന കോഴ്സിലേക്കുള്ള മാർഗ്ഗനിർദ്ദേശത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ എന്ന കോർസിന്റെ മാനുവലുകൾ അല്ലെങ്കിൽ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രദാനം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊരു തംബ് റൂൾ മാർഗ്ഗനിർദ്ദേശമായിരിക്കാം അത് ചെയ്യേണ്ടതും ചെയ്യരുതാത്തതും ആയ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ എന്ന് നിങ്ങൾക്ക് പറയാം എന്നിരുന്നാലും ഇത് കുറെ മാർഗ്ഗനിർദ്ദേശങ്ങൾ ആണ് എന്തിലേക്കുള്ള മാർഗ്ഗനിർദ്ദേശം ആർക്കുള്ള മാർഗ്ഗനിർദ്ദേശം ഏത് സന്ദർഭത്തിലേക്കുള്ള മാർഗ്ഗനിർദ്ദേശം അങ്ങനെ ആർക്കാണ് മാർഗ്ഗനിർദ്ദേശം എന്ന് നമ്മൾ പറയുമ്പോൾ ഇത് ഒരു ആർക്കിടെക്റ്റ് ആയാലും അത് ഒരു സിവിൽ എഞ്ചിനീയറായാലും ആരായിരുന്നാലും ആ ഷെൽറ്ററിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വേണ്ടിയായിരിക്കും പ്രത്യേകിച്ച് മാനുഷിക പശ്ചാത്തലത്തിൽ അടിസ്ഥാനപരമായി ഒരു കൂട്ടം നിർമ്മിത പരിസ്ഥിതി പ്രൊഫഷനുകളിൽ ഷെൽട്ടർ വീണ്ടെടുക്കലിൽ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾക്കുവേണ്ടിയാകാം രണ്ടാമത്തെ വശം ദുരന്ത സാധ്യതയിൽ ചെയ്യേണ്ടതും ചെയ്യരുതാത്തതുമായ ചില തത്ത്വങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് എന്താണ് ചെയ്യേണ്ടതെന്നും എന്ത് ചെയ്യരുതെന്നും ഏതാണ് നല്ലത് എന്നും നിങ്ങൾ അറിയേണ്ടതുണ്ട് ഇത് വളരെ സാധാരണമായ തത്വങ്ങളാണ് ഇത് നിർദിഷ്ടസ്ഥലത്തിനു പ്രത്യേകമല്ല പക്ഷെ ചില നിർദേശങ്ങളാണ് പക്ഷേ ഇത് യഥാർത്ഥത്തിൽ മലയോര മേഖലകളിലോ വെള്ളപ്പൊക്ക പ്രദേശങ്ങളിലോ ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിലോ ജോലി ചെയ്യുന്ന ആളുകൾക്ക് മാത്രം ഉള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ അല്ല ദുരന്തത്തിന്റെ പ്രത്യേകതകളെക്കുറിച്ചുള്ള അറിവാണ് നേരത്തെ ഈ പ്രത്യേക മാർഗനിർദേശങ്ങൾ അഥവാ മാനുവലുകൾ അവയിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത്ര സാങ്കേതികമായിരുന്നു എന്നാൽ കാലം മാറിയപ്പോൾ ദൃശ്യ വശം വളരെയധികം മെച്ചപ്പെട്ടു കാരണം ഇത് സാധാരണക്കാരിലേക്ക് എത്തേണ്ടതുണ്ട് ജനസംഖ്യയുടെ ഭൂരിഭാഗവും ഏതെങ്കിലും തരത്തിൽ ദുരന്തങ്ങൾ പലപ്പോഴും ബാധിക്കപ്പെട്ടിട്ടുള്ളവരാണ് അവർ ഒരുപക്ഷേ സാങ്കേതിക മനുഷ്യശക്തി ലഭിക്കാത്ത ദുർബല പ്രദേശങ്ങളിൽ പ്രത്യേകിച്ചും വിദൂര ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരായിരിക്കാം അതിനാൽ ഇത്തരത്തിലുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ സാധാരണക്കാർക്ക് പോലും മനസിലാക്കാൻ സാധിക്കും എന്താണ് ചെയ്യേണ്ടത് എന്ത് ചെയ്യരുത് എങ്ങനെ ചെയ്യണം എന്നിവയെക്കുറിച്ചു ഞാൻ കുറച്ച് മാർഗ്ഗനിർദ്ദേശങ്ങൾ കാണിക്കും അവ വ്യത്യസ്തമായ ഏജൻസികൾ വികസിപ്പിച്ചതാണ് അവയുടെ ഫോക്കസ് ലൈറ്റുകൾ എന്തെല്ലാമാണ് അവർ എങ്ങനെ വ്യക്തമായി ഡെമോൺസ്ട്രറ്റ് ചെയ്യുന്നു എന്നിങ്ങനെ ഷെൽട്ടർ നിർമ്മാതാക്കൾക്ക് ഒരു വിവരമോ മാർഗനിർദേശമോ നൽകാനാണു അവർ ശ്രമിക്കുന്നത് ഉദാഹരണത്തിന് ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന രൂപകൽപ്പനയ്ക്കും വിശദാംശത്തിനും വേണ്ടി വികസിപ്പിച്ചെടുത്ത ഒരുതരം മാർഗ്ഗനിർദ്ദേശങ്ങളായിരുന്നു ഇത് ഇത് വികസിപ്പിച്ചെടുത്തത് ERC ഭൂകമ്പ എഞ്ചിനീയറിംഗ് റിസർച്ച് സെന്റർ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഇവിടെയാണ് ഗച്ചിബൌളിയിലെ ഐ ഹൈദരാബാദ് പ്രവർത്തിച്ചിരുന്നത് അവർ അവിടെ ലാബ് സ്ഥാപിക്കുകയും അതിന്റെ സിമുലേഷൻ പാർട്ട് ആയി പ്രവർത്തിക്കുകയും ചെയ്തു അവസാനമായി അവർ വിവിധ തെളിവുകൾ അടിസ്ഥാനമാക്കിയുള്ള വിശകലനം അവസാനിപ്പിച്ചു ഒരു ചെറിയ മാനുവൽ വികസിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നു ഇത് എങ്ങനെ പരിസ്ഥിതി നിർമ്മിത പ്രൊഫഷണലുകളെ ഉദാഹരണത്തിന് ആർക്കിടെക്റ്റുകൾ അല്ലെങ്കിൽ ഒരു ഭവന നിർമ്മാണം നടത്തുന്ന സിവിൽ എഞ്ചിനീരെ അറിയിക്കും ഗൃഹനിർമ്മാണത്തിന്റെ അടിസ്ഥാന രൂപത്തെക്കുറിച്ചോ ഇവിടെ ഒരു വീടിന്റെയോ വാസസ്ഥലത്തിന്റെയോ ആസൂത്രണത്തെക്കുറിച്ചു സംസാരിക്കുമ്പോൾ വാസ്തുവിദ്യയുടെ ചില ഘടകങ്ങൾ പിന്തുടരുകയും ചില തത്വങ്ങൾ പാലിക്കുകയും ആ തത്വങ്ങൾ പ്രയോഗിക്കുകയും ചെയ്യുന്നു തുടർന്ന് അടിസ്ഥാനപരമായി ചെയ്യാൻ പ്ലാൻ ചെയ്തത് ചെയ്യുക എന്നതാണ് ഈ കോമ്പോസിഷൻ പ്രക്രിയയിൽ ഭൂകമ്പത്തിന്റെ സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങലും പരിഗണിച്ചു് ഭൂകമ്പ സാധ്യതയുള്ള പ്രദേശങ്ങളിലെ അസിമെട്രിക് കോമ്പോസിഷനുകൾ ഒഴിവാക്കാൻ ശ്രമിക്കണമെന്ന് ശുപാർശ ചെയ്യുന്നു കാരണം അസിമെട്രിക് നിർമാണം ഭൂകമ്പ ശക്തികൾക്ക് വിധേയമായി കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നു ഒരു കെട്ടിടത്തിന്റെ വിങ്സിന് കുറിച്ചു സംസാരിക്കുമ്പോൾ വ്യക്തമായും അതിന്റെ വിങ്സിനെ കുറിച്ചു സംസാരിക്കുന്നതെങ്കിൽ അതിൽ നിരവധി ഉദ്യോഗസ്ഥരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു പ്രവണതയുണ്ട് ഈ കോണുകൾ തകരാൻ സാധ്യതയുണ്ട് കാരണം മുൻകാല ഭൂകമ്പങ്ങളിൽ ഞങ്ങൾ ശ്രദ്ധിച്ച മിക്ക നാശനഷ്ടങ്ങളും അവ കൂടുതലും മൂലകളിലാണ് സംഭവിക്കുന്നത് അതിനാൽ അസമമായ കെട്ടിടങ്ങളുടെ രൂപങ്ങൾ ഒഴിവാക്കാൻ അവർ നിർദേശിക്കുന്നത് അവിടെയാണ് മറ്റ് ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ സൈറ്റ് തിരഞ്ഞെടുക്കലിൽ നമുക്കറിയാവുന്ന പോലെ അവർ സംസാരിക്കുന്നത് നിർമ്മാണത്തിനായി ശ്രമിക്കുമ്പോൾ കുത്തനെയുള്ള ചരിവുകളിൽ നിന്ന് നിർമാണ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക പ്രത്യേകിച്ച് വെട്ടി മണ്ണ് നിറയ്ക്കുമ്പോൾ നിറച്ച മണ്ണിൽ അടിത്തറ ഉണ്ടാക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം അത് താഴേക്ക് ഇരുത്തം വന്നേക്കാം അപ്പോൾ ഭൂകമ്പസമയത്ത് കെട്ടിടം തകരാനുള്ള സാധ്യതയുണ്ട് ഫോഴ്സ് വളരെ അധികമില്ലെങ്കിലും മണ്ണും കെട്ടിടത്തിന്റെ ആകൃതിയും മൂലം ശക്തികളെ സ്ഥിരപ്പെടുത്താൻ കഴിയാത്തതിനാൽ വളരെ മെലിഞ്ഞ കെട്ടിടം ഒഴിവാക്കണമെന്നും അവർ നിർദ്ദേശിക്കുന്നു അനുപാതം ഉയരവും വീതിയും നാലിൽ കുറവായിരിക്കണമെന്നതിനെക്കുറിച്ചും അവർ പറയുന്നു വിപരീത പെൻഡുലം തരത്തിലുള്ള കെട്ടിടങ്ങൾ അസ്ഥിരമാണ് അതിനാൽ അവ എല്ലായ്പ്പോഴും ഒരുതരം പിരമിഡൽ തരത്തിലാണ് പോകുന്നത് അതിനാൽ ലോഡ് വിതരണം ചെയ്യപ്പെടുന്നു എന്നാൽ ഇവിടെ ഉയരം കൂടുന്തോറും അത് ബുദ്ധിമുട്ടാകുന്നു ഇവിടെ കാറ്റിന്റെ ചലനവുമുണ്ട് മുഴുവൻ ഘടനയിലും യഥാർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ലാറ്ററൽ ഫോഴ്സുകളും ഉണ്ട്അത് മുഴുവൻ ഘടനയിലും അപ്ലൈ ചെയ്യേണ്ടതുണ്ട് അതിനെ എങ്ങനെ പ്രതിരോധിക്കാം ഹൈദരാബാദിൽ ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഒരുതരം മാൽക്പേട്ട് ഭുജ് ആണ് ഇത് മാൽക്പേട്ട് എന്ന സ്ഥലത്ത് നിർമ്മിച്ച ഒരുതരം ഉയരമുള്ള ടവറാണ് നിങ്ങൾക്ക് അത് ഏതാണ്ട് 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 കൂടാതെ ഗ്രൌണ്ട് ഫ്ലോർ ജി പ്ലസ് 9 നിലകളോടൊപ്പം കെട്ടിടത്തിന്റെ വോളിയം നോക്കുക കെട്ടിടത്തിന്റെ ഉയരവും വീതിയും നോക്കുക അതിനോട് ചേർന്നുള്ള വശങ്ങളും അഡ്ജസന്റ് സൈഡും എന്താണെന്ന് നോക്കുക ഇപ്പോൾ ചില ചെറിയ ചലനങ്ങൾ സംഭവിച്ചാൽ അടുത്ത കെട്ടിടവും സമാനമായ ഉയരത്തിൽ വരുന്നതായി കാണാൻ കഴിയും അതിനാൽ ചില ടവറുകൾ പരിഗണിക്കാതെയും അവ ഒരു തിരിച്ചടിയും അവശേഷിപ്പിക്കാതെയും അവ അനുപാതങ്ങളൊന്നും ഉപേക്ഷിക്കാതെയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉയരവും വീതിയും തമ്മിൽ ഒരുമിച്ച് ചേർന്ന് വർക്ക് ചെയ്യുന്നത് എന്നും ഇവിടെയാണ് നമ്മുടെ പക്കലുള്ള കെട്ടിട നിയന്ത്രണങ്ങൾ ബിൽഡിംഗ് ബൈലോ എന്നിവ അനുവദനീയമായ പരിധിക്കുള്ളിൽ നിന്ന് നമ്മൾ ചെയ്തു കൊണ്ട് പോകേണ്ടതും എന്നാൽ ഇത് ശരിക്കും മൂല്യവത്താണോ ഒരു ഭൂകമ്പ സമയത്ത് ഭൂകമ്പ ശക്തികളെ ചെറുക്കാൻ കഴിയുമോ എന്നാൽ കെട്ടിട നിയമങ്ങൾ അനുവദിക്കുന്നതും ഭൂകമ്പ മാർഗ്ഗനിർദ്ദേശം പറയുന്നതും തമ്മിലുള്ള ചില പൊരുത്തക്കേടുകളാണ് ഇവയെല്ലാം അവിടെ ഒരു സമവായമുണ്ട് മാർഗ്ഗനിർദ്ദേശ മാനുവൽ നിർദ്ദേശിക്കുന്ന ബൈലോകളും ഘടനാപരമായ നടപടികളും തമ്മിലുള്ള സമവായമായിരിക്കണം അത് അതുപോലെ ലാറ്ററൽ സ്റ്റിഫ്നെസ്സ് പെട്ടെന്നുള്ള മാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അവോയ്ഡ് ചെയ്യണം അതുപോലെ ഉയരം വർദ്ധിപ്പിക്കുമ്പോൾ ഇത് പെട്ടെന്ന് മാറുന്നത് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് ലാറ്ററൽ കാഠിന്യംപെട്ടെന്ന് ചേഞ്ച് ആവുന്നത് ഒഴിവാക്കണം അങ്ങനെയല്ലെങ്കിൽ സമാനമായി പ്രൊജക്ഷനും ഓവർഹാംഗുകളും തകരാൻ സാധ്യതയുണ്ട് അങ്ങനെ ഇപ്പോൾ രണ്ട് സ്റ്റിൽറ്റുകളിൽ കെട്ടിടം മുഴുവൻ തകർന്നു അതിനാൽ ഇത് വളരെ അസ്ഥിരമാണെന്ന് നമുക്ക് അറിയാൻ കഴിഞ്ഞു അതിനാൽ ഇത്തരത്തിലുള്ള വലിയ ഓവർഹാംഗുകൾ ഉണ്ടാകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള സപ്പോർട്ട് സിസ്റ്റം ആവശ്യമാണ് ഇതുപോലെ വലിയ ഓവർഹാംഗുകൾ ഉണ്ടാക്കി കൂടുതൽ ലോഡ് അതിൽ സൂക്ഷിക്കുമ്പോൾ അത് തകർന്നേക്കാം അതാണ് പറയുന്നത് വലിയ ഓവർഹാംഗുകളും പദ്ധതികളും വലിയ ഭൂകമ്പ ശക്തികളെ ആകർഷിക്കുന്നു എന്നത് അതുപോലെ സമാനതകളില്ലാത്ത കെട്ടിടങ്ങളുടെ വേർതിരിവ് സംബന്ധിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ കുറഞ്ഞത് രണ്ട് വ്യത്യസ്ത കെട്ടിടങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവ ഭാരം വഹിക്കാൻ കഴിയുന്ന സ്ട്രക്ച്ചറിൽ ആയിരിക്കണം അവ തമ്മിൽ ഇനി പറയുന്ന ഗാപ് ഉണ്ടായിരിക്കണം ഇത് ഒരു ലോഡ് ചുമക്കുന്ന ഘടനയാണെങ്കിൽ ഏകദേശം 15 മില്ലീമീറ്ററും ആർസിസി ഫ്രെയിം ആണെങ്കിൽ 20 മില്ലീമീറ്ററും സ്റ്റീൽ ഫ്രെയിമാണെങ്കിൽ ഏകദേശം 30 മില്ലീമീറ്ററും ഉണ്ടായിരിക്കണം അതിനാൽ കുറഞ്ഞത് ഇത്രയും വിടവ് ഉണ്ടായിരിക്കണം ഇവ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കുന്നതിന് വേണ്ടിയാണിത് അവ സമാനതകളില്ലാത്ത കെട്ടിടങ്ങളാണ് അതിന് ഏറ്റവും കുറഞ്ഞ വിടവ് മുകളിൽ പറഞ്ഞതുപോലെ ഉണ്ടായിരിക്കണം കൂടാതെ മുകളിലെ കനത്ത പിണ്ഡം ഒഴിവാക്കാൻ നമ്മൾ ശ്രമിക്കണം കാരണം സാധാരണയായി മുൻ കെട്ടിട സംസ്കാരത്തിൽ അവർ ചെയ്യുന്നത് അവർ ഓവർഹെഡ് ടാങ്കുകൾ ഒരു കനത്ത വോള്യത്തിൽ നിർമ്മിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് എന്നാൽ ചലന സമയത്ത് അത് കെട്ടിടത്തിന് താങ്ങാൻ കഴിയാത്ത ലോഡ് നൽകുന്നു ചലനം വ്യക്തമായും സംഭവിക്കുമ്പോൾ അത് ആ മുഴുവൻ ഘടനയിലും അസ്ഥിരത ഉണ്ടാക്കും അങ്ങനെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഒരു വലിയ ടാങ്കിന് പകരം ചെറിയ ടാങ്കുകൾ ഉണ്ടാക്കുക ജലവിതരണ സംവിധാനം അതിൽ ബന്ധിപ്പിക്കുക അതിനാൽ ആ കുറിപ്പിൽ പറയുംപോലെ നിങ്ങൾക്ക് ലോഡ് ബാലൻസ് ഒന്നും ഇതിൽ ലഭിക്കുകയില്ല ഈ സാങ്കേതിക മാനുവലുകൾ റീഇൻഫോഴ്സ്മെന്റിനെ കുറിച്ചും അതിന്റെ തരത്തെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാവുന്ന കണക്ഷൻ വിശദാംശങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നു ഉദാഹരണത്തിന് ഞങ്ങൾ ഒരു അടി ബീമിനേക്കുറിച്ചു പറയുമ്പോൾ അവിടെയാണ് റീഇൻഫോഴ്സ്മെന്റ് വേണ്ടത് അടിസ്ഥാനപരമായി സ്റ്റിറപ്പുകൾ പോലും എങ്ങനെ ആയിരിക്കണം എങ്ങനെ വ്യക്തമായി കവർ ചെയ്യണം എന്നതിനെക്കുറിച്ചു സ്റ്റിറപ്പ് വിശദാംശങ്ങളും മാർഗ്ഗനിർദ്ദേശമായി നൽകിയിട്ടുണ്ടെന്ന് നിങ്ങൾക്കറിയാം അവ എങ്ങനെ മോൾഡ് ചെയ്യണം എങ്ങനെ പരിഗണിക്കണം എന്ത് ചെയ്യണം എന്തുചെയ്യരുത് എന്നെല്ലാം ഉൾപ്പെടുന്നു അതിനാൽ സുനാമിക്ക് ശേഷം തമിഴ്നാട് സർക്കാരും റവന്യൂ അഡ്മിനിസ്ട്രേഷൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആൻഡ് മിറ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ തമിഴ്നാട്ടിൽ സുനാമി ബാധിച്ച വീടുകളുടെ പുനർനിർമ്മാണത്തിന് ചില മാർഗ്ഗനിർദ്ദേശങ്ങളും അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് മാർഗ്ഗനിർദ്ദേശങ്ങളിൽ എന്താണുള്ളത് എന്നതിനെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു സംക്ഷിപ്തമായി കാണിച്ചുതരാം അതുപോലെ വിവിധ മാർഗ്ഗനിർദ്ദേശങ്ങളെക്കുറിച്ച് ഞാൻ ചർച്ച ചെയ്യുന്നത് തുടരും ഇപ്പോൾ അവർ നിങ്ങൾക്ക് അറിയാവുന്നപോലെ കാറ്റ് ചുഴലിക്കാറ്റ് മേഖലകളെക്കുറിച്ചും സംസാരിക്കുന്നു ഉദാഹരണത്തിന് കാറ്റ് ചുഴലിക്കാറ്റ് മേഖലകൾ ഇത് ഏറ്റവും ഉയർന്ന നാശനഷ്ട സാധ്യതയുള്ള മേഖലയാണ് ഇത് ചെന്നൈയ്ക്ക് നേരെയാണ് എന്നാൽ ഇത് മിതമായതാണ് ഇത് ചുഴലിക്കാറ്റ് വശത്തിന് വളരെ അപ്പുറമാണ് എന്നാൽ ഭൂകമ്പത്തിൽ നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ ഈ മേഖല ഭൂകമ്പ സാധ്യതയുള്ള മേഖലകളാണ് കൂടാതെ നീലഗിരിയിലെ മലയോര പ്രദേശങ്ങളും കന്യാകുമാരിയുടെ കുറച്ച് ഭാഗവും കേരളത്തിന്റെ ഭാഗവും മലയോര പ്രദേശങ്ങളാണ് പശ്ചിമഘട്ടം നാഗർകോവിലിനടുത്തും മറ്റ് സ്ഥലങ്ങളിലും കൂടിച്ചേരുന്നതിനാൽ ഇവ വികസിത മേഘലയാണ് എന്നാൽ നിങ്ങൾ ഇത്തരത്തിലുള്ള ഭൂപടങ്ങൾ കാണുക അവ ഒറ്റപ്പെട്ട രീതിയിൽ നോക്കരുത് നിങ്ങൾ ഒന്നിലധികം അപകട സാധ്യതയുള്ള വശവും പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ അതേ ജില്ലയിൽ ഇത് ഒരു ചുഴലിക്കാറ്റ് പോലെയായിരിക്കാം നിങ്ങൾ ഇത് നോക്കുകയാണെങ്കിൽ ഇത് ഒരു ചുഴലിക്കാറ്റ് സാധ്യതയുള്ള ഒരു പ്രദേശമാണ് ഇത് ഒരു ഭൂകമ്പ അപകട മേഖല കൂടിയാണ് അതിനാൽ ആ രീതിയിൽ ഒരാൾ ആ വീക്ഷണകോണിൽ നിന്ന് നോക്കേണ്ടതുണ്ട് അതുപോലെ അവർ CRZ നിയന്ത്രണങ്ങളെ കുറിച്ചു സംസാരിക്കുന്നു CRZ ന്റെ സൂചന തീരദേശ നിയന്ത്രണ മേഖലയെക്കുറിച്ചുള്ള സൂചന പ്രത്യാഘാതം തീരത്ത് നിന്ന് കുറഞ്ഞത് 500 മീറ്ററും പ്രധാന സമുദ്രനിരപ്പിൽ നിന്ന് 5 മീറ്ററും നിയന്ത്രണമേഖലയാണ് അവിടെ കെട്ടിടം ഉയർത്തിയില്ലെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കെട്ടിടത്തിന്റെ സ്തംഭത്തിന്റെ ഉയരം ഉയർത്തിയില്ലെങ്കിൽ വെള്ളം വന്നാൽ അല്ലെങ്കിൽ സുനാമി ഉണ്ടായാൽ പ്രത്യാഘാതം ഉണ്ടാകും അതിനാൽ നിങ്ങൾ കുറഞ്ഞ അത്രയും പക്ഷം ശ്രദ്ധിക്കുക അതുപോലെ ഉയർന്ന കാറ്റിന്റെ വേഗത ആകർഷിക്കുന്ന ഒരു പർവതത്തിനടുത്തുള്ള കെട്ടിടത്തെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുമ്പോൾ അഭികാമ്യമായ സാഹചര്യങ്ങളുണ്ട് എന്നാൽ കെട്ടിടങ്ങളും താഴ്വരയും ഉയർന്ന കാറ്റിൽ നിന്ന് സംരക്ഷിക്കപ്പെടുന്നു ഈ സാഹചര്യത്തിൽ ഞാൻ അതിന്റെ വിപരീത വശവും കൊണ്ടുവരുന്നു കുന്നിന്റെയും ലാൻഡ്സ്കേപ്പിന്റെയും മേക്കപ്പ് എവിടെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു കാറ്റിന്റെ ഗതി എന്ന് ഞാൻ കരുതുന്നു കാരണം ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ടണൽ ഇഫക്റ്റായി മാറുന്ന മറ്റൊരു കുന്നുണ്ടെന്നു സങ്കൽപ്പിക്കുക അപ്പോൾ കാറ്റ് വളരെ ഉഗ്രമായി അതുവഴി മാറിപ്പോകും തടസ്സമില്ലാത്ത എറിയയിൽ ഉയർന്ന കാറ്റിൽ നിന്ന് സംരക്ഷണം ഉണ്ടാകില്ല കാരണം അവിടെയാണ് നിങ്ങൾ ലാൻഡ്സ്കേപ്പിനെക്കുറിച്ച് സംസാരിക്കേണ്ടത് നിങ്ങൾക്കറിയാമോ നമുക്ക് എങ്ങനെ ലാൻഡ്സ്കേപ്പിനെ പ്രൊമോട്ട് ചെയ്യാമെന്ന് അതുവഴി കാറ്റിന്റെ വേഗത കുറയ്ക്കാനും ഒരു നിയന്ത്രണ സംവിധാനം ഉണ്ടാക്കാനും കഴിയും മുൻ റിപ്പോർട്ടിൽ ആസൂത്രണ ആവശ്യകതകളെക്കുറിച്ചും ഏത് തരത്തിലുള്ള പ്ലാൻ രൂപീകരിക്കണം നടത്തണം എന്നതിനെക്കുറിച്ചും ഞാൻ നിങ്ങളോട് ചർച്ച ചെയ്തതുപോലെ അസമമായ പ്ലാനുകൾ ഉണ്ടാക്കരുത് കൂടാതെ നിങ്ങൾക്കറിയാമോ നിരവധി ഓഫ്സെറ്റുകൾ ഇവിടെ ഇല്ല എന്നാൽ ഇത് വളരെയധികം പോലെയാണ് വളരെ സമമിതിയാണ് പക്ഷേ ഇപ്പോഴും അതിൽ വളരെയധികം ഓഫ്സെറ്റുകൾ ഉണ്ട് എന്നാൽ ഒന്നുകിൽ കൂടുതൽ നിർവചിക്കപ്പെട്ട രൂപം ഉണ്ടാക്കാൻ ശ്രമിക്കുക കാരണം അവിടെയാണ് നിങ്ങൾക്ക് കഴിയുന്നത് ഒരു ഡയഗണൽ ബ്രേസിംഗുകൾ പോലും ഉണ്ട് നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണാ സംവിധാനം ഉണ്ടായിരിക്കാം അങ്ങനെ ചെയ്യും അത് കുറഞ്ഞത് a യുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഈ പ്ലാൻ ചതുരാകൃതിയിലോ ദീർഘചതുരാകൃതിയിലോ ആയിരിക്കണം അത് ദീർഘചതുരാകൃതിയിലാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരുതരം ഇന്റർമീഡിയറ്റ് പിന്തുണാ സംവിധാനങ്ങൾ അതിനു ഉണ്ടായിരിക്കണം ഇപ്പോൾ ശൂന്യമായ പോക്കറ്റുകളുള്ള അസമമായ കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാണ് കാരണം ഈ ശൂന്യമായ പോക്കറ്റുകൾ ഉപേക്ഷിക്കരുത് ഞങ്ങൾ അത് നിറയ്ക്കാൻ ശ്രമിച്ചു അവിടെയാണ് ഇവ കൂടുതൽ സ്ഥിരതയുള്ളതെന്ന് നിങ്ങൾക്കറിയാമോ സമമിതി കെട്ടിടങ്ങൾ കൂടുതൽ സ്ഥിരതയുള്ളവയാണ് കൂടാതെ ഞങ്ങൾ പറയുമ്പോൾ റോ ഹൌസ് ആസൂത്രണം റോ ഹൌസ് പ്ലാനിംഗ് കാറ്റ് ടണൽ ഇഫക്റ്റുകളും സൃഷ്ടിക്കുന്നു കാരണം നിങ്ങളുടെ വീട് ഒരു പടി മറ്റൊന്നിലേക്ക് കടക്കുന്ന നിമിഷം കരയോട് ചേർന്ന് അത് കാറ്റിനെ നയിക്കുന്നു അവിടെയാണ് അത് മതിലുകളുടെ അരികുകൾക്കോ കോണുകൾക്കോ കേടുവരുത്തുന്നത് അതിനാൽ അവിടെയാണ് നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നത് ഇപ്പോൾ സിഗ്സാഗ് പ്ലാനിംഗ് പോലും കാറ്റിന്റെ തുരങ്കത്തിന്റെ പ്രഭാവം ഒഴിവാക്കുന്നു അതിനാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ കാണാൻ കഴിയും നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ എങ്ങനെ കഴിയും അൽപ്പം വിശാലത നൽകുകയും തുടർന്ന് അത് കുറയ്ക്കുകയും ചെയ്യുക സിഗ്സാഗ് പാറ്റേണിന് ചില നിയന്ത്രണങ്ങൾ ഉണ്ടായിരിക്കും അത് നിങ്ങൾ യഥാർത്ഥത്തിൽ അതിനെ എങ്ങനെ ഓറിയന്റുചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു അതുപോലെ കാറ്റിന്റെ ദിശയിലേക്ക് അഭിമുഖീകരിക്കുന്ന കെട്ടിടത്തിന്റെ നീണ്ട ഘട്ടവും വാസ്തവത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും തമിഴ്നാട്ടിലെ തീരദേശ ഗ്രാമങ്ങളിലും തീരപ്രദേശങ്ങളിലും സന്ദർശിക്കുകയാണെങ്കിൽ മിക്കപ്പോഴും നിങ്ങളുടെ ചെറിയ ഘട്ടം കെട്ടിടത്തിന്റെ കാറ്റിന്റെ ദിശയെ അഭിമുഖീകരിക്കുന്നു അതേസമയം തിരശ്ചീന ഘട്ടത്തിൽ കാരണം അവിടെയാണ് അവർക്ക് തുറസ്സുകളുടെ എണ്ണം കുറവാണ് ഒന്നുകിൽ അവർ ആ വശത്തേക്ക് അഭിമുഖീകരിച്ചാൽ അവയ്ക്ക് തുറസ്സുകളുടെ എണ്ണം കുറവായിരിക്കും അല്ലാത്തപക്ഷം അവർ കൂടുതലും ഓറിയന്റാണ് ചെയ്യുന്നതെങ്കിൽ കെട്ടിടത്തിന്റെ മുഴുവൻ മാതൃകയും നിങ്ങൾക്ക് കടൽത്തീരം ഉള്ളതുപോലെയാണ് അതിനാൽ കെട്ടിടത്തിന്റെ ചെറിയ വശം കടൽത്തീരത്തെ അഭിമുഖീകരിക്കും അങ്ങനെയാണ് അവ ദിശാസൂചനയുള്ളതും സമാനമായതും ഈ പ്രത്യേക മാനുവലുകൾ ഗുണനിലവാര നിയന്ത്രണത്തെക്കുറിച്ചും സംസാരിക്കുന്നു ഗുണനിലവാര നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ ഇത് മെറ്റീരിയലിനെ കുറിച്ചുള്ള ചർച്ചകളാണ് ഞങ്ങൾ ഉൾപ്പെടുത്തേണ്ട അനുപാതങ്ങൾ എന്തൊക്കെയാണ് അതിനാൽ ഞങ്ങൾ പറയുമ്പോൾ സിമന്റും മണലും 1 6 ൽ കുറവായിരിക്കരുത് 1 6 അങ്ങനെ 1 സിമന്റിനും മണലിന്റെ 6 ൽ ഒന്ന് സിമന്റ് ആയിരിക്കുക അതിനാൽ 1 6 ൽ കുറയാത്ത ഈ മോർട്ടറിന്റെ സംയോജനം നിങ്ങൾ ഉപയോഗിക്കരുത് ഒന്നുകിൽ 1 മണൽ 1 സിമന്റ് 6 മണൽ അല്ലെങ്കിൽ 1 കുമ്മായം 3 മണൽ അല്ലെങ്കിൽ 1 സിമന്റ് 3 നാരങ്ങ 9 മണൽ എന്നിവ ഉപയോഗിക്കാൻ ശുപാർശ ചെയ്യുന്നു അതിനാൽ ഇത് സാധാരണയായി മാർഗ്ഗനിർദ്ദേശങ്ങൾ ശുപാർശ ചെയ്യുന്ന ഒരു തരം മോർട്ടാർ മിശ്രിതമാണ് കൂടാതെ ദിവസാവസാനം ഇവയെല്ലാം ശരിയായ IS കോഡിൽ നിന്നാണ് വരുന്നത് എന്നാൽ ഇവ ഒരു തമ്പ് നിയമങ്ങൾ മാത്രമാണ് ഈ മാനുവലുകളിൽ പലതും ഇംഗ്ലീഷിൽ പ്രസിദ്ധീകരിക്കുമ്പോൾ ഒരു പ്രാദേശിക മേസ്നിക്ക് അത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും എന്നത് വളരെ ബുദ്ധിമുട്ടാണ് അതിനാൽ ഈയിടെ കേരളത്തിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം ആർക്കിടെക്റ്റ് ബെന്നി കുര്യാക്കോസ് അടുത്തിടെ നടത്തിയ ശ്രമങ്ങൾ അവിടെയാണ് അതിനാൽ അദ്ദേഹം ചെയ്തത് കേരളത്തിലെ പ്രളയബാധിത പ്രദേശങ്ങൾക്കായി റിട്രോഫിറ്റിംഗിനും വെള്ളപ്പൊക്കത്തെ പ്രതിരോധിക്കാവുന്ന രൂപകല്പനയ്ക്കുമായി ഒരു മാനുവൽ വികസിപ്പിച്ചെടുക്കുക എന്നതാണ് അതിനാൽ മലയാളം പതിപ്പ് ഇതിനകം അച്ചടിച്ചു ഇംഗ്ലീഷ് പതിപ്പ് പ്രക്രിയയിലാണ് എന്നിട്ടും അദ്ദേഹത്തിന്റെ സൃഷ്ടിയുടെ ചില ചിത്രങ്ങൾ എനിക്ക് കാണിച്ചുതരാം അത് വളരെ ഡയഗ്രമാറ്റിക് ശരിക്കും ചിത്രീകരണ സൃഷ്ടിയായിരുന്നു പരിഹാരങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം നോക്കുന്നു നിങ്ങൾക്ക് അറിയാവുന്ന കാരണങ്ങൾ എങ്ങനെയെന്ന് അദ്ദേഹം യഥാർത്ഥത്തിൽ വിശദീകരിക്കുന്നു ഇത് ഏതെങ്കിലും മാർഗ്ഗനിർദ്ദേശം വികസിപ്പിക്കുന്നതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വശമാണ് അതിനാൽ ഈ ദുരന്തങ്ങളുടെ അനന്തരഫലങ്ങളും പ്രത്യേകിച്ച് കാരണങ്ങൾ എന്താണെന്നും മനസ്സിലാക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് അതിന്റെ മൂലകാരണങ്ങൾ അത് ഓറിയന്റേഷന്റെ രൂപമാണോ ഇത് നിർമ്മാണ തരമാണോ ഇത് നിങ്ങൾക്ക് അറിയാവുന്ന ഒരു ഉദ്ധരണിയാണോ അതിനാൽ ഇതെല്ലാം ഉദാഹരണമായി ഇവിടെ നിങ്ങൾക്ക് ഈ സാധാരണ സജ്ജീകരണങ്ങളുണ്ട് അവിടെ നിങ്ങൾക്ക് നദീനിരപ്പും അവയിൽ എല്ലാ നിർമാണവും നദീ നിറയ്പ്പിനു മുകളിൽ ആയിരിക്കണമെന്ന് പറയുന്നു മലനിരകളിൽ അഥവാ വെള്ളപ്പൊക്കം ഉണ്ടായാൽ ശരാശരി വെള്ളപ്പൊക്കനിരപ്പ് ഇവിടെ എത്തിയിരിക്കാം പക്ഷേ ഡാമുകളുടെ നിർമ്മാണത്തിന് ശേഷം ആളുകൾ നദീതടങ്ങൾക്ക് സമീപം നിർമ്മാണം ആരംഭിച്ചു അവ മാറുന്നു വെള്ളം ഇടയ്ക്കിടെ വരുന്നില്ല എന്ന കാരണം അവർക്കറിയാം അങ്ങനെയാണ് അവർ ഇറങ്ങാൻ തുടങ്ങിയത് അവർ നദീതടത്തോട് ചേർന്ന് വീടുകൾ പണിയാൻ തുടങ്ങി അവിടെയാണ് 2018 ൽ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായത് വീടുകളുടെ മുക്കാൽ ഭാഗവും വെള്ളത്തിനടിയിലായി എന്നാൽ വെള്ളപ്പൊക്കത്തിന് ശേഷവും ഇത്തരമൊരു ചിത്രങ്ങൾ രൂപപ്പെടുമ്പോൾ ഈ താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിൽ അവശേഷിക്കുന്നതായി നിങ്ങൾ കാണുന്നു അതാണ് പടരുന്ന ചില പ്രാദേശിക പകർച്ചവ്യാധികൾ സൃഷ്ടിക്കുന്നത് അത് ഇതിലും വലിയ ദുരന്തമാണ് അതിനാൽ ഇതിന് വളരെയധികം സമയമെടുക്കുന്നു നിങ്ങൾ അറിഞ്ഞതിന് ശേഷവും വെള്ളം തിരികെ നിൽക്കുന്നുണ്ട് കാരണം വെള്ളപ്പൊക്കത്തിന് ശേഷവും രക്ഷാപ്രവർത്തനത്തിന് ശേഷവും കശ്മീരിലെ അതേ കഥയാണ് വെള്ളം ശരിയായ ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ അഭാവമാണ് പ്രധാന പ്രശ്നം ചെന്നൈ വെള്ളപ്പൊക്കവും അതുതന്നെയാണ് കാരണം അവിടെയാണ് ആസൂത്രണ സാഹചര്യവും സേവന അടിസ്ഥാന സൌകര്യ ഓറിയന്റേഷനും അഭിസംബോധന ചെയ്യേണ്ടത് അപ്പോൾ ഈ പ്രദേശങ്ങളിലേക്ക് വെള്ളം വന്നുകൊണ്ടേയിരിക്കുമ്പോൾ ഒരു വശം കൂടിയുണ്ട് ഉദാഹരണത്തിന് ജലനിരപ്പിൽ വ്യത്യാസമുണ്ട് അതിൽ പ്രവേശിക്കുന്ന വെള്ളത്തിന്റെ അളവും പുറത്തെ വെള്ളത്തിന്റെ അളവും തമ്മിൽ വ്യത്യാസമുണ്ട് ഇത് ഏകദേശം 8 കാറുകളാണ് 8 കാറുകളുടെ ഭാരം അതിന്റെ തള്ളൽ അത് മതിലിൽ സമ്മർദം സൃഷ്ടിക്കുന്നു അപ്പോൾ വരുന്ന ലോഡ് എന്താണെന്ന് നിങ്ങൾക്കറിയാം ജലനിരപ്പിലെ വ്യത്യാസം ചുവരിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു ഈ വ്യത്യാസം വീണ്ടും സമ്മർദ്ദം സൃഷ്ടിക്കുന്നു രണ്ട് ശക്തികൾ ഉള്ളതിനാൽ ഈ മതിൽ തകരാൻ സാധ്യതയേറെയാണ് ഒന്ന് ചെറിയ ശക്തിയാണ് ഒന്ന് വലിയ ശക്തിയാണ് അത് തള്ളുകയാണ് ഇത് ഏകദേശം 8 കാറുകളാണ് അതുകൊണ്ടുതന്നെ വ്യക്തമായും ബാലൻസ് കിട്ടുന്നില്ല അതായത് വെള്ളം മേൽമണ്ണ് പുറത്തെടുക്കുന്നു മേൽമണ്ണ് പുറത്തേക്ക് പോകുന്ന നിമിഷം അടിത്തറ 1000 മില്ലീമീറ്റർ ആയിരിക്കും ഉള്ളത് വ്യക്തമായും ഇത് അയവുള്ളതാക്കുകയും മണ്ണിന്റെ അവസ്ഥയും ചലനവും മാറ്റുകയും ചെയ്യും അതിനാൽ ഈ വീടുകൾ തകരാൻ സാധ്യതയുണ്ട് അതാണ് ഞങ്ങൾ ആ വീഡിയോകളിൽ കാണിച്ചത് കൂടാതെ വെള്ളപ്പൊക്കത്തിന്റെ വേഗത കാരണം സുനാമിയുടെ മറ്റേ മാനുവൽ പറയുന്ന അതേ കാര്യം നിങ്ങൾ ഓർക്കുക നിങ്ങൾ ഈ റോ ഹൌസുകൾ ഇതുപോലെ നിർമ്മിക്കുന്ന നിമിഷം ഇത് സമ്മർദ്ദം സൃഷ്ടിക്കും അതിന്റെ തീവ്രതാ എന്താണെന്നു നിങ്ങൾക്ക് അറിയാം കാരണം അവിടെയാണ് ഇത് ഒരുതരം തടസ്സപ്പെടുത്തൽ പ്രക്രിയ ആവശ്യമുള്ളത് വെള്ളം ഭിത്തികളേയും ബാധിക്കുകയും അടിത്തറയെ ബാധിക്കുകയും ചെയ്യും അതിനാൽ ഇത് കാരണങ്ങളുടെ ചില കാഴ്ചകളാണ് എന്നാൽ ഈ മാനുവലിൽ അദ്ദേഹം വിശദീകരിച്ച മറ്റു പലതും ഉണ്ട് വാസ്തവത്തിൽ ഈ കാര്യങ്ങൾ എങ്ങനെ പുനർനിർമ്മിക്കാം കാരണം ഈ വശങ്ങളുടെ കാരണങ്ങൾ മാത്രമല്ല നിങ്ങൾ സംസാരിക്കേണ്ടതും ഉണ്ട് പരിഹാരങ്ങൾ ഉദാഹരണത്തിന് പരിഹാരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് എങ്ങനെ പുനഃക്രമീകരിക്കാം എന്തൊക്കെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം ഉദാഹരണത്തിന് വാസ്തുവിദ്യയിൽ ഞങ്ങൾ ഷോറിംഗ് പഠിച്ചിരിക്കാം നിങ്ങൾ റേക്കിംഗ് ഷോറുകളെ കുറിച്ച് പഠിച്ചിരിക്കാം അതിനാൽ നിങ്ങൾ അടിവരയിടുന്നതിനെക്കുറിച്ച് പഠിച്ചിരിക്കാം ഇവ ഞങ്ങളുടെ വാസ്തുവിദ്യാ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വിഷയത്തിൽ നിന്ന് ഞങ്ങൾ പഠിക്കുന്ന വിവിധ സാങ്കേതിക വിദ്യകളാണ് എന്നാൽ ഇത് നിങ്ങൾ ശരിക്കും പ്രയോഗിക്കുന്ന ഒന്നാണ് കാരണം ഈ മതിൽ സംരക്ഷിക്കുന്നതിനും പുനരുദ്ധാരണ പ്രക്രിയയ്ക്കിടയിലും നിങ്ങൾ ഈ തീരം പ്രയോഗിക്കേണ്ടതുണ്ട് പരിഗണിക്കേണ്ടതുണ്ട് അതിനാൽ പുനഃസ്ഥാപിക്കൽ പൂർത്തിയാകുന്നതുവരെ അല്ലെങ്കിൽ റിട്രോഫിറ്റിംഗ് പൂർത്തിയാകുന്നതുവരെ നിങ്ങൾ ഒരുതരം താൽക്കാലിക പിന്തുണ നൽകേണ്ടതുണ്ട് ഇപ്പോൾ വ്യത്യസ്ത വഴികളുണ്ട് ഉദാഹരണത്തിന് ഈ വിള്ളലുകളുടെ വ്യത്യസ്ത സ്കെയിലുകൾ അദ്ദേഹം വിശദീകരിക്കുന്നു ഇത് ചെറിയ വിള്ളലാണെങ്കിൽ എന്തുചെയ്യണം ഞങ്ങൾ ഒരു വി ഗ്രോവ് ഉണ്ടാക്കി അയഞ്ഞ കണങ്ങൾ നീക്കം ചെയ്യുന്നു തുടർന്ന് സ്റ്റോൺ ചിപ്സ് ചേർക്കുന്നു അതിനാൽ ഒരു ജെലാറ്റിൻ സാങ്കേതികതയുണ്ട് നിങ്ങൾ സ്റ്റോൺ ചിപ്സ് സൂക്ഷിക്കുക തുടർന്ന് ഒരു ചിക്കൻ വയർ മെഷ് മുഴുവൻ ശരിയാക്കുക തുടർന്ന് മോർട്ടാർ ഉപയോഗിച്ച് പൂരിപ്പിക്കുക ചുരുങ്ങാത്ത സിമന്റ് ഗ്രൌട്ട് അങ്ങനെ 15 ദിവസത്തേക്ക് ഇത് ക്യൂറിംഗ് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ക്യൂറിംഗ് ആണ് എല്ലാവരും ഈ ക്യൂറിംഗ് ഭാഗം അവഗണിക്കുന്നു ഇത് അതിന്റെ പ്ലാസ്റ്റർ ഭാഗം മാത്രമല്ല അതിനാൽ അദ്ദേഹം നിങ്ങളോടൊപ്പം വരുന്ന ചില സാങ്കേതിക വിദ്യകളാണ് ഇവ ഈ കാര്യങ്ങൾ എങ്ങനെ റിട്രോഫിറ്റ് ചെയ്യാമെന്ന് അറിയാം പിന്നെ ഇതുവരെ നമ്മൾ സംസാരിച്ചത് വളരെ ഡിസാസ്റ്റർ ഫോക്കസിൽ നിന്നുള്ള മാനുവലുകളും മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകുന്നതിനെക്കുറിച്ചാണ് അത് ഭൂകമ്പത്തെ കേന്ദ്രീകരിച്ചതാണോ ഇത് സുനാമി കേന്ദ്രീകരിച്ചതാണോ ഇത് വെള്ളപ്പൊക്കത്തിൽ കേന്ദ്രീകരിച്ചതാണോ പക്ഷേ ബെന്നി കുര്യാക്കോസ് ഇവ പ്രാദേശിക ഭാഷയിൽ വിവർത്തനം ചെയ്യുന്നതായി നിരീക്ഷിച്ചു അവ കാരണവും അതിന്റെ ആഘാതവും വിശദീകരിക്കുന്ന ഒരു ഡയഗ്രമാറ്റിക് രീതിയിൽ കൂടുതൽ ചിത്രീകരിച്ചിരിക്കുന്നു അതിനാൽ ഒരു പ്രശ്നമുണ്ട് ഒരു കാരണവുമുണ്ട് സ്വാധീനവുമുണ്ട് ഇതിന്റെ ഫലമായി ഒരു പരിഹാരമായി ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാം നിങ്ങൾക്കറിയാവുന്ന വ്യത്യസ്തമായ മാർഗങ്ങൾ എന്തൊക്കെയാണ് അങ്ങനെയാണ് ഇവ കൈകാര്യം ചെയ്യുന്നത് മാനുവലുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ മാനുവലുകളെക്കുറിച്ചോ മാർഗ്ഗനിർദ്ദേശത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ അത് ഷോയുടെ വിശാലമായ ഒരു ചിത്രം ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ അത് തമിഴ്നാട് സംസ്ഥാന സർക്കാരാണോ എന്നതിനെ കുറിച്ച് എന്താണ് എഞ്ചിനീയറിംഗ് ഘടനകൾ GSD MA എവിടെ ഗുജറാത്ത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കെട്ടിടങ്ങൾ പുനർനിർമിക്കുന്നതിനോ പുനർനിർമ്മാണത്തിനോ വേണ്ടി ചില മാനുവലുകൾ പുറപ്പെടുവിച്ചിരിക്കുന്നത് എന്നാൽ സംസ്ഥാനം സംസ്ഥാനം മുഴുവൻ വളരെ വൈവിധ്യപൂർണ്ണമാണ് അതിന് അതിന്റേതായ പ്രദേശങ്ങളുണ്ട് അതിന് അതിന്റേതായ ഭൂമിശാസ്ത്രപരവും ഭൂമിശാസ്ത്രപരവും ഭൂപ്രകൃതിയും ഉണ്ട് അതുല്യമായ ഭൂപ്രകൃതിയുണ്ട് വളരെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയാണ് നിങ്ങൾ ഗുജറാത്ത് സംസ്ഥാനമെടുത്താൽ അതിന്റെ മരുഭൂമിയുടെ ഒരു ഭാഗം നിങ്ങൾക്കുണ്ട് ബന്നി പുൽമേടുകളുടെ ഒരു ഭാഗം നിങ്ങൾക്കുണ്ട് അതുപോലെ തമിഴ്നാട്ടിൽ നിങ്ങൾക്ക് തീരദേശ തമിഴ്നാട് ഉണ്ട് നിങ്ങൾക്ക് ഒരു പർവതപ്രദേശമായി നീലഗിരിയുണ്ട് അതിനാൽ ഓരോ സംസ്ഥാനത്തെയും വ്യത്യസ്ത സാംസ്കാരിക ഭൂമിശാസ്ത്രങ്ങളാൽ ഉപവിഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു അത് ഭൂമിശാസ്ത്രം മാത്രമല്ല സംസ്കാരങ്ങൾക്കനുസരിച്ച് അവയും വ്യത്യാസപ്പെടുന്നു സംസ്കാരം അതിൽ പ്രവേശിക്കുമ്പോൾ അതിന് സംസാരിക്കാൻ കഴിയും അത് കെട്ടിടത്തിൽ പ്രതിഫലിക്കുന്നു ഇത് ഒരു തരം നിർമ്മാണമാണോ അത് ഒരു വീടിന്റെ വിന്യാസമാണോ അത് പാർപ്പിട ടൈപ്പോളജിയും അവരുടെ വിശ്വാസ സമ്പ്രദായങ്ങളും ആണോ എന്ന് പരിശീലിക്കുന്നു അങ്ങനെ അവിടെയാണ് ഗ്രാമവികസന മന്ത്രാലയവും ഇന്ത്യാ ഗവൺമെന്റും ചേർന്ന് 13 സംസ്ഥാനങ്ങളിലെ ഗ്രാമീണ ഭവന ടൈപ്പോളജികളുടെ ഒരു സമാഹാരം പുറപ്പെടുവിച്ച ഒരു ശ്രമം ആരംഭിച്ചത് ഇതിനെ പ്രകൃതി ഹുനാർ ലോകവിദ്യ എന്ന് വിളിക്കുന്നു പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീണ് പദ്ധതി പ്രകാരം വ്യത്യസ്ത ഗ്രാമീണ ഭവന സാങ്കേതികവിദ്യകളുടെ ഒരു തരം സംഗ്രഹമായാണ് ഇത് സമാഹരിച്ചിരിക്കുന്നത് കൂടാതെ UNDP CBRI IIT ഡൽഹി എന്നിവരും സാങ്കേതിക സ്ഥാപനങ്ങളുടെ പങ്കാളികളുമാണ് അവർ ഇതിനകം തന്നെ അസം ഛത്തീസ്ഗഡ് ഹിമാചൽ ജാർഖണ്ഡ് മണിപ്പൂർ ഒറീസ്സ രാജസ്ഥാൻ ത്രിപുര ഉത്തർപ്രദേശ് പശ്ചിമ ബംഗാൾ എന്നിവിടങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഞാൻ എല്ലാം നിങ്ങളെ കാണിക്കില്ല പക്ഷേ അവിടെ എങ്ങനെയെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം എന്താണ് അവർ അഭിസംബോധന ചെയ്യാൻ ശ്രമിക്കുന്ന മാതൃക ഒന്നാമതായി നിങ്ങൾ ഒരു മാർഗ്ഗനിർദ്ദേശം വികസിപ്പിക്കുമ്പോൾ മാനുവലിന്റെ രൂപകൽപ്പന തന്നെയാണ് പ്രധാന കാര്യം ഉദാഹരണത്തിന് ഇതൊരു സോൺ എ ആണ് ഇപ്പോൾ കോഡിംഗ് ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അത് പറയുന്നു UPA 01 UP ഉത്തർപ്രദേശ് A എന്നത് സോൺ എന്താണ് സോണിനുള്ളിൽ നിങ്ങൾക്ക് 2 3 ടൈപ്പോളജികൾ ഉണ്ടായിരിക്കാം അങ്ങനെയാണ് ടൈപ്പോളജി നമ്പർ അതിനാൽ ഉദാഹരണത്തിന് നിങ്ങൾ പറയുമ്പോൾ സംസ്ഥാന നാമവും തുടർന്ന് മേഖലയും 1 2 3 4 5 അത് പോലെ ആയിരിക്കും അതിനാൽ ഇത് ABCDE സോൺ വഴി ചെയ്യാനാകും തുടർന്ന് സോണിനുള്ളിൽ നിങ്ങൾക്ക് 1 2 3 4 ടൈപ്പോളജി ഉണ്ട് ഇത് ഇങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നതും ഒരാൾക്ക് ഈ പ്രമാണം വായിക്കാൻ കഴിയുന്നതും അതിന്റെ ഒരു ഉദാഹരണം ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഉദാഹരണത്തിന് അസം സംസ്ഥാനം എടുക്കുക നിങ്ങൾക്ക് സോൺ എ സോൺ ബി സോൺ സി എന്നീ സോണുകൾ എടുക്കുക ബംഗ്ലദേശ് നേരെയുള്ള സി സോൺ അതിന്റെ മണിപ്പൂർ വശം ഉണ്ട് അവിടെ സോൺ ഡിയും സോൺ ഇയും ഉണ്ട് അതിനാൽ പ്രകൃതിദത്ത അപകടങ്ങൾ ഫിസിയോഗ്രാഫിക് നിർമ്മാണ സാമഗ്രികളിലേക്കുള്ള പ്രവേശനം സാംസ്കാരിക അനുയോജ്യത എന്നിവയെ അടിസ്ഥാനമാക്കിയാണ് അവയെല്ലാം തരംതിരിച്ചിരിക്കുന്നത് അതിനാൽ പ്രത്യേകിച്ച് വെള്ളപ്പൊക്കത്തിന്റെ ഉയർന്ന അപകടസാധ്യതയിൽ എന്താണ് ഈ സോൺ എ ഉൾക്കൊള്ളുന്നതെന്ന് അവർ ഇവിടെ വിവരിച്ചിട്ടുണ്ട് ഏത് തരത്തിലുള്ള വെള്ളപ്പൊക്കത്തെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് ഏത് തരത്തിലുള്ള നദീതീര മണ്ണൊലിപ്പിനെക്കുറിച്ചാണ് അവർ സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാമോ അത് സംസാരിക്കുന്നു ഏതുതരം ഉയരങ്ങളെക്കുറിച്ചും വനമേഖലയെക്കുറിച്ചും അങ്ങനെയാണ് ഓരോ സോണിന്റെയും വിവരണം നൽകിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ സംസാരിക്കുന്ന സോൺ എയിൽ ഇവിടെ ഇതാണ് സോൺ എ ഇത് ഉയർന്ന അപകടസാധ്യത ഇടത്തരം അപകടസാധ്യതയുള്ള ചുഴലിക്കാറ്റ് കൊടുങ്കാറ്റുകൾ കൂടുതലും താഴ്ന്ന അപകടസാധ്യതയുള്ള നദീതീരത്തെ മണ്ണൊലിപ്പ് എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിനാൽ ഇവിടെ ഇതൊരു പ്രത്യേക ടൈപ്പോളജിയാണ് അവർ അത് രേഖപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വീടിന്റെയും മൂന്ന് ഇഞ്ച് ചുവരുകളുള്ള ഇഷ്ടിക കൊത്തുപണികളോടുള്ള പ്രതികരണവും ഏറ്റവും സാധാരണമാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഈ ഗ്രാമീണ ഭവന ടൈപ്പോളജിയെ എങ്ങനെ സാധൂകരിക്കാനാകും എന്നത് ഒരു ശ്രമമായതിനാൽ എങ്ങനെ ഘടനാപരമായി ഒരാൾക്ക് എങ്ങനെ സാധൂകരിക്കാനാകും അങ്ങനെ നേരത്തെ ഏത് ഗ്രാമീണ സാങ്കേതികവിദ്യ നിലവിലുണ്ടെങ്കിലും അവർ അത് അവഗണിക്കാൻ ശ്രമിക്കുകയും അവർ സ്വന്തമായി നൽകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഏകീകൃതവും സ്റ്റാൻഡേർഡ് സൊല്യൂഷനും എന്നാൽ ഇത് ഒരു ശ്രമമാണ് ആ പ്രാദേശിക സ്വഭാവം എങ്ങനെ നിശ്ചലമാക്കാം ആ സാങ്കേതികതകളെ നമുക്ക് എങ്ങനെ സാധൂകരിക്കാം ഇനി സ്തംഭത്തെപ്പറ്റി പറയുന്നു ഉയർന്ന സ്തംഭ രൂപകല്പനയും ചരിഞ്ഞ മേൽക്കൂരയും ഇത് അടിത്തറയെക്കുറിച്ചും മതിൽ മതിൽ ഫിനിഷിംഗ് പ്ലെയിൻ റൂഫ് ഘടന തറ എന്നിവയെക്കുറിച്ചും സംസാരിക്കുന്നു മാത്രമല്ല ഇത് ശുപാർശ ചെയ്യുന്ന സവിശേഷതകളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് പിന്നെ ഇതുപോലുള്ള ഒരു സാധാരണ പാർപ്പിട യൂണിറ്റ് പൂജ്യം ഒന്ന് ആണ് ഇത് ഒരു ടൈപ്പോളജിയാണ് നിങ്ങൾക്ക് അറിയാമെന്നും അടിസ്ഥാന അളവുകൾ നിലവിലുള്ളത് എങ്ങനെയെന്നും നിങ്ങൾക്ക് ചിന്തിക്കാം അത് ഒരാൾക്ക് യഥാർത്ഥത്തിൽ 6 അടി 3 ഇഞ്ച് ആണെന്നു മനസ്സിലാക്കാൻ കഴിയും 6 അടി 3 ഇഞ്ച് ഇടയിൽ അങ്ങനെയാണ് ഒരു ഫ്രെയിം ചെയ്ത ഘടനയെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇവിടെ സിമന്റ് മോർട്ടറിലെ പകുതി ഇഷ്ടിക മതിൽ 14 ആണെന്ന് നിങ്ങൾക്ക് കാണാം അതേസമയം അത് ഒരു ഇഷ്ടിക പിയർ ആണെങ്കിൽ 10 ഇഞ്ച് 10 ഇഞ്ച് ബ്രിക്ക് പിയർ ഓരോന്നിനും നിങ്ങൾക്ക് ലഭിക്കുന്നത് 6 അടി 3 ഇഞ്ച് സ്പാൻ ആണ് കൂടാതെ 3 ഇഞ്ച് വ്യാസമുള്ള മുള പോസ്റ്റ് കോൺക്രീറ്റ് സ്ലാബിൽ ഘടിപ്പിച്ചിരിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് കോൺക്രീറ്റ് ഉണ്ട് തുടർന്ന് ഇത് ഒരു മുള പോസ്റ്റാണ് ഇത് ഒരു ബലപ്പെടുത്തൽ പോലെ പ്രവർത്തിക്കുന്നു ഇത് അതിനൊപ്പം ഉൾച്ചേർത്തിരിക്കുന്നു ഇത് അതിന്റെ പ്ലാൻ രൂപങ്ങളെക്കുറിച്ചുള്ള അടിസ്ഥാന ധാരണയാണ് പിന്നെ അത് ഉയരങ്ങളിലേക്ക് തിരികെ പോകുന്നു അതിലെ മെറ്റീരിയൽ ഘടകങ്ങൾ അങ്ങനെ തടികൊണ്ടുള്ള പർലിനുകൾ എങ്ങനെ പ്രവർത്തിക്കുന്നു കോളർ ബീം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാമോ നിങ്ങൾക്കറിയാം ഇഷ്ടിക അടിത്തറകൾ എങ്ങനെയെന്ന് നിങ്ങൾക്കറിയാം അവ എങ്ങനെ ചെയ്യണം അത് ഈ ഫോർമാറ്റിൽ എങ്ങനെ നിർമ്മിക്കാം എന്നതിന്റെ കൂടുതൽ സാങ്കേതിക വിശദാംശങ്ങൾ നൽകുന്നു പിന്നെ കോസ്റ്റ് എസ്റ്റിമേറ്റിലേക്ക് വരുന്നു സോൺ എയുടെ ചിലവ് എസ്റ്റിമേറ്റ് നിങ്ങൾക്കറിയാം അങ്ങനെ ഒന്ന് ഡിസൈൻ ചെയ്യുക ഞങ്ങൾ ചെലവ് എസ്റ്റിമേറ്റിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിൽ ഉത്ഖനനം ഇഷ്ടിക മണ്ണ് പിസിസി ഇഷ്ടികപ്പണി ഫൌണ്ടേഷൻ പ്ലിന്തിന്റെ ഇഷ്ടികപ്പണി കോൺക്രീറ്റ് അനുപാതം എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കുന്നത് 53 എന്നതാണ് അനുപാതം എല്ലായ്പ്പോഴും ഇത് അഗ്രഗേറ്റുകളുടെയും റീഇൻഫോഴ്സ്മെന്റിന്റെയും സ്റ്റീൽ ട്രസ്സിന്റെയും ഗുണിതമാണ് തുടർന്ന് GCI ഷീറ്റും വാതിലും വിൻഡോ സിമന്റും പ്ലാസ്റ്ററും അതിനാൽ ആ രീതിയിൽ അവർ നിങ്ങൾക്കൊപ്പം കംപോസ് ചെയ്തു ഒരു മുറി അടുക്കള വരാന്ത മൊത്തത്തിൽ എത്രയാണ് ചെലവ് വരുന്നതെന്നും അവർ അത് എങ്ങനെ കണക്കാക്കുമെന്നും നിങ്ങൾ സംസാരിക്കുമ്പോൾ അളവ് വില എന്നിവയുടെ സംയോജനമാണ് കൂടാതെ സ്പെസിഫിക്കേഷനും അതിൽ വരും ആ പ്രദേശത്തെ തൊഴിൽ നിരക്കുകൾ ഒരാൾക്ക് മനസിലാക്കേണ്ടതുണ്ട് ഇത് ഒരു ഡൽഹി പ്രദേശമാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന നിരക്കുകളുടെ ലിസ്റ്റ് വിശകലനത്തെക്കുറിച്ച് സംസാരിക്കണം DSRs ഇത് ഒരു CPWD ഏജൻസി ആണെങ്കിൽ ഈ നിരക്കുകൾ ഒരാൾക്ക് എങ്ങനെ ലഭിക്കുംഎന്ന് നിങ്ങൾ വിശകലനം ചെയ്യണം അത് ഒരു തൊഴിൽ നിരക്കാണോ ഇത് ഒരു മെറ്റീരിയൽ നിരക്കാണോ ഇത് ഒരു സ്റ്റീൽ നിരക്കാണോ എങ്കിൽ ഇത് ഒരു ടൺ ഉറുക്കിൽ എത്ര സ്റ്റീൽ പ്രവർത്തിക്കുന്നു ഇത് ഇഷ്ടിക ആണെങ്കിൽ ഇഷ്ടികപ്പണിക്ക് എത്ര ഇഷ്ടികപ്പണികൾ ചിലവാകുന്നു ഈ ഇഷ്ടികപ്പണിക്ക് എത്ര തൊഴിൽ ആവശ്യമാണ് അതിനാൽ ഇതെല്ലാം ഒരുതരം കോസ്റ്റ ബ്രേക്ക് അപ്പ് ആണ് അങ്ങനെ അവസാനം നിങ്ങൾക്ക് 1 ലക്ഷത്തി 64000 ൽ നിന്ന് എന്തെങ്കിലും മാർഗനിർദേശം കൊണ്ടുവരാൻ കഴിയും ഒരാൾക്ക് ഇത്തരത്തിലുള്ള വീട് സ്വന്തമാക്കാൻ കഴിയും അതിനാൽ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെ എന്നതിന്റെ വിശദമായ പതിപ്പ് ഇത് നിങ്ങൾക്ക് നൽകുന്നു ഈ ഗ്രാമീണ ടൈപ്പോളജികളെ നമുക്ക് മുഖ്യധാരാ പ്രയോഗത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയും അതുപോലെ പാകിസ്ഥാൻ പോലുള്ള രാജ്യങ്ങളിൽ പാകിസ്ഥാനിൽ സാങ്കേതിക വിദഗ്ധർക്കും കരകൌശല വിദഗ്ധർക്കും ഒരു ഗൈഡ്ബുക്ക് ഉണ്ട് അവർ അതിനെ ആർട്ടിസൻസ് എന്ന് വിളിക്കുന്നു ഇന്ത്യയിലേതുപോലെ ഹിമാചലിലും അതുപോലെ ഉത്തരാഖണ്ഡിലും ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്ന ഒന്നോ രണ്ടോ നിലകളുള്ള വീടുകളുടെ ദജ്ജി മതിൽ നിർമ്മാണം നമുക്കുണ്ട് അവിടെ നിങ്ങൾക്ക് തടി ഫ്രെയിമുകളും അഥവാ കല്ല് പതിച്ചതോ ആയ എംബെഡ്ഡ്ഡ് ഫ്രെയിം ഘടിപ്പിച്ചിരിക്കുന്നു അത് ഉരുളൻ കല്ലുകളായാലും പെബിൽ സ്റ്റോൺ ആയാലും ഒരു ഫ്ലിന്റ് നിറയ്ക്കുന്നതാണോ എന്നിങ്ങനെ അവർ ഈ ധജ്ജി നിർമ്മാണം ചെയ്യുന്നതിനുള്ള സാങ്കേതിക മാനുവലുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് കൂടാതെ നിങ്ങൾ ഈ മലയോര പ്രദേശങ്ങളിൽ സംരക്ഷണ ഭിത്തികൾ സംരക്ഷണ ഭിത്തികൾ പോലെയുള്ള നിർമാണപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ ഒരാൾ സമീപിക്കേണ്ട രീതികൾ എന്തൊക്കെയാണ് പ്രത്യേകിച്ച് തടി സ്റ്റഡുകൾ ഉള്ളതിനാൽ ഈ ദജ്ജി മതിൽ നിർമ്മാണങ്ങളെ ഉപവിഭാഗമാക്കുന്നതിന് ഞങ്ങൾ പ്രയോഗിക്കുന്ന തത്വങ്ങൾ എന്തൊക്കെയാണ് കല്ല് ഗേബിയോണുകൾ ക്കുള്ളിൽ ഘടിപ്പിച്ചിരിക്കുന്നവയോ അല്ലെങ്കിൽ ചെളിപ്ലാസ്റ്ററിടുകയോ ചെയ്യാം അതിനാൽ ഇവിടെയാണ് അവർ നഖത്തിന്റെ വലുപ്പത്തെക്കുറിച്ച് പോലും സംസാരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്ന ഇടങ്ങളെ കുറിച്ച് പോലും അവർ സംസാരിക്കുന്നു ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് അറിയാവുന്ന 1 ഇഞ്ച് 4 ഇഞ്ച് അവിടെ സ്റ്റഡുകളുടെ നീളം സ്റ്റഡുകളുടെ അളവുകൾ എന്നിവയെക്കുറിച്ച് പോലും സംസാരിക്കുന്നു ഇപ്പോൾ അറിയാവുന്ന ചില സാങ്കേതിക വിശദാംശങ്ങൾ നൽകുന്നു സ്ക്വയറുകളുടെ വോളിയം ഈ പ്രാദേശിക ആശാരിമാർക്കോ ഈ ദജ്ജി മതിൽ നിർമ്മാണത്തിൽ ജോലി ചെയ്യാൻ പോകുന്ന കരകൌശല വിദഗ്ധർക്കോ അവ ചില മാർഗ്ഗനിർദ്ദേശങ്ങൾ നൽകുന്നു അതിനാൽ തീർച്ചയായും ഈ മാനുവലുകളെ കുറിച്ചുള്ള ഒരു സംക്ഷിപ്തമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് വ്യത്യസ്തവും വ്യത്യസ്തവുമായ ഭാഷകളിൽ ധാരാളം മാനുവലുകൾ ഉണ്ട് പക്ഷേ ഞാൻ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിന്ന് നിങ്ങളെ കാണിക്കാൻ ശ്രമിക്കുന്നു ഒരുപക്ഷേ പാകിസ്ഥാൻ ഞാൻ കവർ ചെയ്തു ഒരു ആർക്കിടെക്റ്റുകൾക്ക് നോക്കാൻ ഇത് മതിയാകും ചെലവ് കുറഞ്ഞ ഭവനനിർമ്മാണത്തിനും ചിലതരം തമ്പ് നിയമങ്ങൾ ഉണ്ട് അത് പ്രാദേശിക ഭാഷയിൽ നൽകുന്ന രീതിയിലാണ് ഈ പ്രത്യേക സാങ്കേതിക വിവരങ്ങൾ എങ്ങനെ സാധാരണക്കാരനിലേക്കും എത്തും എന്നതാണ് ക്ഷ്യമാണെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ മാനുവലുകളുടെ പ്രധാന ലക്ഷ്യം ഈ മാനുവലുകളും മാർഗ്ഗനിർദ്ദേശങ്ങളും നിങ്ങൾക്ക് ഇപ്പോൾ പരിചിതമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വളരെ നന്ദി